K നിയറെസ്റ് നെയ്ബേർസ് ഈ ലെക്ച്ചറിൽ K നിയറെസ്റ് നെയ്ബേർസ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതം നമ്മൾ നോക്കും അതിനാൽ ഞാൻ ഒരു K നിയറെസ്റ് നെയ്ബർ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതം അവതരിപ്പിക്കട്ടെ അതിനെയാണ് ക്ലാസ്സിഫിക്കേഷനുള്ള നോൺപാരാമെട്രിക് അൽഗോരിതം എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ നോൺപാരാമെട്രിക് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം മുൻപ് നമ്മൾ ലോജിസ്റ്റിക്സ് റിഗ്രഷൻ നോക്കിയത് ഓർക്കുക ഉദാഹരണത്തിന് ഇതുപോലുള്ള ഡാറ്റ ഉണ്ടെന്ന് പറയാം എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ട്രെയിൻഡ് ഡാറ്റ β0 β11 X1 β12 X2 ഈ ഫോമിന്റെ 2 d കേസിൽ ഒരു ഹൈപ്പർപ്ലെയ്ൻ വികസിപ്പിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നു ഒരു പുതിയ ഡാറ്റാ പോയിന്റ് വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ഡാറ്റയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ ട്രെയിൻഡ് ഡാറ്റയിൽ നിന്ന് കണക്കാക്കിയ പാരാമീറ്ററുകൾ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനാൽ ഈ പദത്തെ 1 e പവർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഈ e പവർ ഉണ്ടായിരുന്നുവെന്നത് ഓർക്കുക അതിനാൽ ഈ ഫംഗ്ഷൻ β0 β11 β12 എന്നിവയുടെ പ്രവർത്തനമാണ് അതിനാൽ ഇവയെല്ലാം ഈ ഡാറ്റയിൽ നിന്ന് ഇതിനകം ഉരുത്തിരിഞ്ഞ പാരാമീറ്ററുകളാണ് ഏത് സമയത്തും ഒരു പുതിയ ടെസ്റ്റ് ഡാറ്റ വരുമ്പോൾ അത് ഈ ഫംഗ്ഷനിലൂടെ അയയ്ക്കുകയും തുടർന്ന് നിങ്ങൾ ഒരു പ്രവചനം നടത്തുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു പാരാമെട്രിക് രീതിയാണ് കാരണം ഡാറ്റയിൽ നിന്നാണ് പാരാമീറ്ററുകൾ ഉരുത്തിരിഞ്ഞത് K നിയറെസ്റ് നെയിബർ മറ്റൊരു ആശയമാണ് ഇവിടെ എനിക്ക് ഡാറ്റയിൽ നിന്ന് ഇതുപോലുള്ള പാരാമീറ്ററുകൾ ലഭിക്കുന്നില്ല ക്ലാസ്സിഫിക്കേഷൻ നടത്താൻ ഞാൻ ഡാറ്റ തന്നെ ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ K നിയറെസ്റ് നെയിബേർസ് ഉപയോഗിക്കുന്ന ഒരു വ്യത്യസ്ത ആശയമാണിത് നമുക്ക് ശരിയായ ടെർമിനോളജി കിട്ടിയോ എന്ന ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കെ നിയറെസ്റ് നെയിബർ എന്ന തരംതിരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ഉണ്ട് അത് നമുക്ക് പിന്നീട് കാണാം അതാണ് ഞാൻ കാണാൻ പോകുന്ന നെയിബേഴ്സിന്റെ എണ്ണം അതിനാൽ നിങ്ങൾ ആശ്ചര്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നമ്മൾ ഈ k നിയറെസ്റ് നെയിബെറിൽ ഒരു പാരാമീറ്റർ ഉപയോഗിക്കുന്നതിനാൽ ഞാൻ അതിനെ നോൺ പരമെട്രിക് എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് അതിനാൽ ഇവിടെയുള്ള വ്യത്യാസം സൂക്ഷ്മമാണ് എന്നാൽ നിങ്ങൾ ഇത് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പിന്നീട് കാണുന്ന k നിയറെസ്റ് നെയിബറിന്റെ അൽഗോരിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയിബറുകളുടെ എണ്ണം അൽഗോരിതത്തിനുള്ള ഒരു ട്യൂണിംഗ് പാരാമീറ്ററാണ് ഇത് എനിക്ക് ഡാറ്റയിൽ നിന്ന് ഉണ്ടായിവന്ന ഒരു പാരാമീറ്ററല്ല അതേസമയം ലോജിസ്റ്റിക് റിഗ്രഷനിൽ ഡാറ്റയിൽ നിന്ന് മാത്രം എനിക്ക് ലഭിക്കുന്ന പരാമീറ്ററുകളാണിവ ഈ മൂല്യങ്ങൾ എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാനാവില്ല എന്നിരുന്നാലും എനിക്ക് പറയാൻ കഴിയും എനിക്ക് k നിയറെസ്റ് നെയിബറിനെ രണ്ടോ മൂന്നോ നെയിബറുകളോടൊപ്പം ഉപയോഗിക്കാൻ കഴിയുമെന്നും അതിനാൽ ഇതാണ് ട്യൂണിങ് പാരാമീറ്റർ അതിനാൽ ഡാറ്റയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ട്യൂണിംഗ് പാരാമീറ്ററും പാരാമീറ്ററുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ k നിയറെസ്റ് നെയിബർ ഒരു നോൺ പാരാമെട്രിക് രീതിയാണ് എന്നത് ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് പാരാമീറ്ററുകളൊന്നും ഉരുത്തിരിഞ്ഞില്ല എന്ന വസ്തുതയെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും k നിയറെസ്റ് നെയിബർ ട്യൂണിംഗ് പാരാമീറ്ററുകൾ ഉപയോഗിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ അത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇതിനെ ലേസി പഠന അൽഗോരിതം എന്നും വിളിക്കുന്നു ഇവിടെ എല്ലാ കണക്കുകൂട്ടലുകളും ക്ലാസ്സിഫിക്കേഷൻ വരെ മാറ്റിവയ്ക്കുന്നു അതിനാൽ ഞങ്ങൾ ഇത് അർത്ഥമാക്കുന്നത് ഇനിപ്പറയുന്നവയാണ് ലോജിസ്റ്റിക്സ് റിഗ്രഷനു വേണ്ടി ഞാൻ പരിശീലനം ലഭിച്ച ഡാറ്റ നൽകുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് ഡാറ്റാ പോയിന്റിനായി ഞാൻ ഏതെങ്കിലും ക്ലാസ്സിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് ഈ പാരാമീറ്ററുകൾ ലഭിക്കുന്നതിന് ഞാൻ ഈ ജോലി ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഈ പാരാമീറ്ററുകൾ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ടെസ്റ്റ് ഡാറ്റ പോയിന്റുകളെ തരംതിരിക്കാൻ കഴിയില്ല എന്നിരുന്നാലും k നിയറെസ്റ് നെയിബറിൽ ഇത് എനിക്ക് ഡാറ്റയും ഒരു ടെസ്റ്റ് ഡാറ്റ പോയിന്റും നൽകുന്നു അതിനാൽ അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നമ്മൾ കാണും പക്ഷേ ഒരു ടെസ്റ്റ് ഡാറ്റ പോയിന്റ് തരംതിരിക്കുന്നതിന് മുമ്പ് ഒരു ജോലിയും ചെയ്യേണ്ടതില്ല അതിനാൽ k നിയറെസ്റ് നെയിബറും ലോജിസ്റ്റിക് റിഗ്രഷനും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസമാണിത് ഉദാഹരണത്തിന് ഫംഗ്ഷൻ പ്രാദേശികമായി കണക്കാക്കിയിരിക്കുന്ന ഇൻസ്റ്റന്റ് ബേസ്ഡ് പഠനം എന്നും ഇതിനെ വിളിക്കുന്നു അതിനാൽ ഞാൻ ഈ അൽഗോരിതം വിവരിക്കുന്നതു പോലെ നമ്മൾ പ്രാദേശികമായ ഈ ആശയത്തിലേക്ക് മടങ്ങിവരും ഇപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം നമ്മൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഈ ലെക്ച്ചർ ആരംഭിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതങ്ങളിൽ ഏറ്റവും ലളിതമായതും നടപ്പിലാക്കാൻ വളരെ എളുപ്പമായതുമാണ് ഇതെന്ന് സൂചിപ്പിച്ചിരുന്നു ഞാൻ വിശദീകരിക്കുമ്പോൾ അൽഗോരിതം എത്ര ലളിതമാണെന്ന് നിങ്ങൾ കാണും അവിടെ വ്യക്തമായ ട്രെയിനിങ് ഫേസ് ഇല്ല കൂടാതെ അവിടെ ട്രെയിനിങ് ഡേറ്റക്ക് ജനറലൈസേഷനും ഇല്ല ഞാൻ ഡാറ്റ നൽകുന്നു അത് ഏത് ക്ലാസിൽ ഉൾപ്പെടണം എന്ന് പറയാൻ അവർ എനിക്ക് ഒരു പുതിയ ഡാറ്റ പോയിന്റ് നൽകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു തീർച്ചയായും അൽഗോരിതം അടിസ്ഥാനമാക്കി പരിശീലന ഡാറ്റാ പോയിന്റുകൾ ഏത് ക്ലാസിൽ ഉൾപ്പെടണമെന്ന് എനിക്ക് പ്രവചിക്കാൻ കഴിയും തുടർന്ന് ഡാറ്റ പോയിന്റ് ഉള്ള ലേബലുമായി നമുക്കിത് താരതമ്യം ചെയ്യാം എന്നിരുന്നാലും ഞാൻ ചില പാരാമീറ്ററുകൾ വ്യക്തമായി പുറത്തെടുക്കാൻ പോകുന്നില്ല എപ്പോഴാണ് ഒരാൾ ഈ അൽഗോരിതം ഉപയോഗിക്കുന്നത് സങ്കീർണ്ണമായ നോൺ ലീനിയർ ഡിസിഷൻ ബൌണ്ടറികൾ ഉള്ളപ്പോൾ ഇതൊരു ലളിതമായ അൽഗോരിതം ആണ് ഈ അൽഗോരിതം അതിശയകരമാം വിധം നന്നായി പ്രവർത്തിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയ അളവിലുള്ള ഡാറ്റയും ട്രെയിൻഡ് ഫേസിൽ നിങ്ങൾക്ക് ഒരു വലിയ സംഖ്യയിൽ ഒതുങ്ങാൻ കഴിയും ഒരു ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം അനുസരിച്ച് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നിരുന്നാലും ഈ അൽഗോരിതം വിവരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു മുന്നറിയിപ്പ് എന്തെന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഡാറ്റ ഉള്ളപ്പോൾ നിയറെസ്റ് നെയിബറിന്റെ ക്ലാസ്സിഫിക്കേഷൻ തന്നെ സങ്കീർണ്ണമാകും എന്നതാണ് അതിനാൽ ഇത് പരിഹരിക്കാനുള്ള വഴികളുണ്ട് എന്നാൽ ഡാറ്റയുടെ അളവ് വലുതായിരിക്കുമ്പോൾ വ്യക്തമായ പരിശീലന ഘട്ടം ഇല്ലാത്തതിനാൽ വലിയ അളവുകളിലുള്ള ഡാറ്റ പോയിന്റുകളുമായി ഒപ്റ്റിമൈസേഷൻ ഇല്ല എന്നതാണ് ഞങ്ങൾ പറയുന്നതെല്ലാം പിന്നീട് ക്ലാസ്സിഫിക്കേഷനിൽ ഉപയോഗശൂന്യമായ പാരാമീറ്ററുകൾ തിരിച്ചറിയാൻ കഴിയും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റ് അൽഗോരിതങ്ങളിൽ നിങ്ങൾ എല്ലാ e ort a priori ചെയ്യും നിങ്ങൾക്ക് പാരാമീറ്ററുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ടെസ്റ്റ് ഡാറ്റ പോയിന്റിൽ ക്ലാസ്സിഫിക്കേഷൻ എളുപ്പമാകും എന്നിരുന്നാലും CNN ഒരു അലസമായ അൽഗോരിതം ആയതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് വരെ എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിവയ്ക്കപ്പെടും ആ സമയത്ത് ഡാറ്റ വലുതാണെങ്കിൽ കൂടുതൽ ക്ലാസിക് കണക്കുകൂട്ടലുകൾ ഉണ്ടായേക്കാം അതിനാൽ k നിയറെസ്റ് നെയിബേഴ്സിനുള്ള ഇൻപുട്ട് സവിശേഷതകൾ ക്വാളിറ്റേറ്റിവും ക്വാണ്ടിറ്റേറ്റീവും ആയിരിക്കാം കൂടാതെ ഔട്ട്പുട്ട് സാധാരണയായി കാറ്റഗറിക്കൽ മൂല്യങ്ങളാണ് ഈ ഡാറ്റ ഏത് തരം ക്ലാസിലാണ് ഉൾപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ k നിയറെസ്റ് നെയിബേഴ്സിനെ ക്ലാസ്സിഫിക്കേഷനായി മാത്രം ഉപയോഗിക്കേണ്ടതില്ല അവിടെയാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ പ്രശ്നങ്ങൾക്കായി നിങ്ങൾക്ക് വളരെ ലളിതമായ വിപുലീകരണങ്ങളോ ലളിതമായ നിർവചനങ്ങളോ ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാം കൂടാതെ ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ പ്രശ്നങ്ങൾക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ പൊരുത്തപ്പെടുത്താമെന്ന് ഞാൻ ഈ അൽഗോരിതം വിവരിക്കുമ്പോൾ നിങ്ങൾ കാണും എന്നിരുന്നാലും ഈ ലെക്ച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത ക്ലാസുകളും ഈ ഡാറ്റാ പോയിന്റ് ഏത് ക്ലാസിൽ പെടുന്നുവെന്നും പറയുന്ന ഔട്ട്പുട്ടുകളോ കാറ്റഗറിക്കൽ മൂല്യങ്ങളോ ആണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ k നിയറെസ്റ് നെയിബർ അൽഗോരിതം വിശദീകരിക്കുകയാണെങ്കിൽ അടുത്തുള്ള നെയിബറുകളുടെ ഭൂരിപക്ഷ വോട്ടുകൾ ഉപയോഗിച്ച് k നിയറെസ്റ് നെയിബർ കാൽസിഫിക്കേഷൻ മൂല്യം വിശദീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം അതിനാൽ ഞങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക ഡാറ്റാ പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഡാറ്റാ പോയിന്റ് ഏത് ക്ലാസിൽ പെടുന്നു എന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എല്ലാ നെയിബറിങ് ഡാറ്റാ പോയിന്റുകളും നോക്കുകയും തുടർന്ന് അവ ഏത് ക്ലാസിൽ പെട്ടതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് എന്നിട്ട് ഭൂരിപക്ഷ വോട്ട് എടുക്കുക അതാണ് ഈ ഡാറ്റ പോയിന്റിലേക്ക് നിയോഗിക്കപ്പെട്ട ക്ലാസ് അതിനാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ അവന്റെ അയൽക്കാരെ നിങ്ങൾ അറിയണം അത്തരത്തിലുള്ള ഒന്നാണ് k നിയറെസ്റ് നെയിബറുകളെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡാറ്റാ സയൻസ് അൽഗോരിതങ്ങളുടെ ഈ ഭാഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ വ്യത്യസ്ത അൽഗോരിതങ്ങൾ ഉണ്ടാക്കുന്ന അനുമാനങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് ഉദാഹരണത്തിന് ഇതൊരു നോൺ പാരാമെട്രിക് അൽഗോരിതം ആയതിനാൽ അടിസ്ഥാന ഡാറ്റാ വിതരണത്തെക്കുറിച്ച് നമ്മൾ അനുമാനങ്ങളൊന്നും നടത്തുന്നില്ല നമ്മൾ നിയറെസ്റ് നെയിബറുകളെ നോക്കാൻ പോകുന്നു അതിനുശേഷം ഒരു ഉത്തരം കണ്ടെത്തും അതിനാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനോ മറ്റേതെങ്കിലും ലീനിയർ സെപ്പറബിലിറ്റി അനുമാനങ്ങളോ ഒന്നും നമ്മൾ അനുമാനിക്കാൻ പോകുന്നില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കെ നമ്മൾ കാണാൻ പോകുന്ന നെയിബറുകളുടെ എണ്ണം ഒരു ട്യൂണിംഗ് പാരാമീറ്ററാണ് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അതിനാൽ നിങ്ങൾ ട്യൂണിങ് പാരാമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ അൽഗോരിതം പ്രവർത്തിപ്പിക്കുകയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ആ പാരാമീറ്റർ സൂക്ഷിക്കുക തുടർന്ന് നിങ്ങളുടെ ഡാറ്റയ്ക്കായി മികച്ച ഒരു k കണ്ടെത്തുക പ്രധാന കാര്യം നമ്മൾ നെയിബറുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിനാലും ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് നെയിബറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഒരു ഡാറ്റ പോയിന്റും അതിന്റെ നെയിബേഴ്സും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഈ അൽഗോരിതം പ്രവർത്തിക്കാൻ നമ്മൾക്ക് ഒരു ഡിസ്റ്റൻസ് മെട്രിക് ആവശ്യമാണ് ഏതെങ്കിലും രണ്ട് ഡാറ്റാ പോയിന്റുകൾ തമ്മിലുള്ള സാമീപ്യമെന്തെന്ന് ഈ ഡിസ്റ്റൻസ് മെട്രിക് പറയും ഡിസ്റ്റൻസ് മെട്രിക് എന്നത് യൂക്ലിഡിയൻ ദൂരം മഹാലനാബിസ് ദൂരം ഹാമിംഗ് ദൂരം മുതലായവ ആകാം അതിനാൽ k നിയറെസ്റ് നെയിബറിനെ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധി ഡിസ്റ്റൻസ് മെട്രിക്കുകൾ ഉണ്ട് അതിനാൽ അൽഗോരിതം അനുസരിച്ച് ഇനിപ്പറയുന്ന നാല് ഘട്ടങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത് അൽഗോരിതം തരംതിരിക്കുന്നതിന് ഒരു ഡാറ്റാ പോയിന്റ് ലഭിക്കുന്നതുവരെ ഒന്നും ചെയ്യുന്നില്ല വർഗ്ഗീകരിക്കേണ്ട ഒരു ഡാറ്റാ പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ എന്റെ ഡാറ്റാബേസിൽ എനിക്ക് N ഡാറ്റാ പോയിന്റുകളുണ്ടെന്നും ഓരോന്നിനും ഒരു ക്ലാസ് ലേബൽ ഉണ്ടെന്നും പറയാം ഉദാഹരണത്തിന് X1 ക്ലാസ് 1 ലേതാണ് X2 ക്ലാസ് 1 ലേതാണ് X3 ക്ലാസ് 2 ലേതാണ് Xn എന്നത് ക്ലാസ് 1 ൽ പെടുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു ബൈനറി സാഹചര്യം അറിയാം ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രശ്നം അറിയാം ഇതൊരു ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രശ്നമായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് X2 വേണമെങ്കിൽ ക്ലാസ് 2 ൽ ഉൾപ്പെട്ടേക്കാം അതിനാൽ അവിടെ നിരവധി ക്ലാസുകൾ ഉണ്ടായിരിക്കാം അതിനാൽ kNN അൽഗോരിതം ഉപയോഗിച്ച് മൾട്ടി ക്ലാസ് പ്രോബ്ലങ്ങൾ പരിഹരിക്കാനും വളരെ എളുപ്പമാണ് അതിനാൽ നമുക്ക് ബൈനറി പ്രോബ്ലത്തിൽ ഉറച്ചുനിൽക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു പുതിയ ടെസ്റ്റ് പോയിന്റ് ഉണ്ടെന്നും അതിനെ ഞാൻ Xnew എന്ന് വിളിക്കുന്നു എന്നും പറയട്ടെ ഇത് എങ്ങനെ തരംതിരിക്കുന്നുവെന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ആദ്യ ഘട്ടം ഈ പുതിയ ടെസ്റ്റ് പോയിന്റും ഡാറ്റാ സെറ്റിലെ ലേബൽ ചെയ്ത ഓരോ ഡാറ്റാ പോയിന്റുകളും തമ്മിലുള്ള ദൂരം കണ്ടെത്തുക എന്നതാണ് ഉദാഹരണത്തിന്d1 ന് Xν നും X1 നും ഇടയിലും d 2 വിന് Xν ക്കും X2 നും ഇടയിലും d3 ക്കും dl നും ഇടയിലും ഡിസ്റ്റൻസ് ഉണ്ടാകാം അതിനാൽ ഒരിക്കൽ നിങ്ങൾ ഈ ദൂരം കണക്കാക്കിയാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് n ദൂരമുണ്ട് എന്നതാണ് ഇതിനാലാണ് kNN പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് അവസാന സ്ലൈഡിൽ ഒരു ഡിസ്റ്റൻസ് മെട്രിക് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ലഭിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായി ഈ ദൂരങ്ങളെല്ലാം നോക്കുക എന്നതാണ് എന്നിട്ട് പറയുക ഏറ്റവും ചെറിയതിൽ നിന്ന് ഏറ്റവും വലുതിലേക്കുള്ള ദൂരം ഞാൻ ഓർഡർ ചെയ്യുന്നു എന്ന് അതിനാൽ dn ഏറ്റവും ചെറിയ ദൂരമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അതിനാൽ dn ഒരുപക്ഷേ d 5 d 3 d 10 അത് എന്തായാലും ഞാൻ അവ ഓർഡർ ചെയ്യുന്നു ഇത് ഏറ്റവും ചെറുതിൽനിന്നു വലുതിലേക്കുള്ളതാണ് ദൂരങ്ങൾ എല്ലാം Xnew വിൽ നിന്നായതിനാൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും ദൂരെയുള്ളതിനോട് ഏറ്റവും അടുത്തുള്ളതായി കരുതാം അതിനാൽ ദൂരം പൂജ്യമാണെങ്കിൽ പോയിന്റ് Xν തന്നെയാണ് അതിനാൽ ഏത് ചെറിയ ദൂരവും Xnew ന് ഏറ്റവും അടുത്താണ് നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആയിത്തീരുന്നു ഇപ്പോൾ അടുത്ത ഘട്ടം വളരെ ലളിതമാണ് k 3 ഉപയോഗിച്ച് നിങ്ങൾ k നിയറെസ്റ് നെയ്യിബറെയാണ് നോക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതിൽ ആദ്യത്തെ മൂന്ന് ദൂരങ്ങൾ കണ്ടെത്തുകയാണോ ഈ ദൂരം Xn ൽ നിന്നാണ് ഈ ദൂരം X5 ൽ നിന്നുള്ളതാണ് ഈ ദൂരം X3 ൽ നിന്നാണ് അതിനാൽ ഒരിക്കൽ നമ്മൾ ഇത് ദൂരത്തിനനുസരിച്ച് ഓർഡർ ചെയ്യുകയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുകയും ചെയ്തുകഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഇത് ഈ രീതിയിൽ അടുക്കിയാൽ അനുബന്ധ ഡാറ്റാ പോയിന്റുകൾ എന്താണെന്നും നമുക്കറിയാം അതിനാൽ ഇത് ഉൾപ്പെടുന്നു ഇതാണ് ഡാറ്റാ പോയിന്റ് Xn അതിനാൽ ഇത് Xn നും Xnew നും ഇടയിലുള്ള ദൂരം X5 നും ഇതും തമ്മിലുള്ള ദൂരം ഇതാണ് അതിനാൽ ഇപ്പോൾ ഡാറ്റാ സെറ്റിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ഈ മൂന്ന് ഡാറ്റ പോയിന്റുകൾ എനിക്കുണ്ട് ഇപ്പോൾ എനിക്ക് ഇതിനെ തരംതിരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് ഈ ഡാറ്റാ പോയിന്റുകൾ ഏത് ക്ലാസിൽ പെട്ടതാണെന്ന് ഞാൻ കണ്ടെത്തുന്നു അതിനാൽ എല്ലാവരും ക്ലാസ്സ് 1 ൽ ഉള്ളവരാണെങ്കിൽ Xnew ക്ലാസ് 1 ആണെന്ന് ഞാൻ പറയുന്നു എല്ലാവരും ക്ലാസ്സ് 2 ൽ പെട്ടവരാണെങ്കിൽ Xnew ക്ലാസ് 2 ആണെന്ന് ഞാൻ പറയുന്നു അവരിൽ രണ്ട് പേർ ക്ലാസ്സ് 1 ലും മൂന്നാമത്തേത് ക്ളാസ് 2 ലുമാണ് ഞാൻ ഭൂരിപക്ഷ വോട്ട് ചെയ്യുന്നു ഇപ്പോഴും അത് ക്ലാസ് 1 ആണെന്ന് പറയുന്നു അവരിൽ രണ്ട് പേർ ക്ലാസ് 2 ലും ഒരാൾ ക്ലാസ് 1 ലും ഉൾപ്പെട്ടാൽ ഞാൻ പറയും ഇത് ക്ലാസ് 2 ആണെന്ന് അതാണ് മുഴുവൻ അൽഗോരിതം അതിനാൽ ഈ K ലേബൽ ഡാറ്റാ പോയിന്റുകളിൽ ഭൂരിഭാഗവും ഉള്ള ക്ലാസ് ലേബൽ ഏതെന്ന് കണ്ടെത്താൻ ഇത് പറയുന്നു ഞാൻ അത് ടെസ്റ്റ് ഡാറ്റ പോയിന്റിലേക്ക് നിയോഗിക്കുന്നു വളരെ ലളിതമാണ് ചെറിയ പരിഷ്കാരങ്ങളുള്ള ഈ അൽഗോരിതം ഫംഗ്ഷൻ അപ്രോക്സിമേഷനായി ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം ഒരു പുതിയ പോയിന്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന് പ്രവചിക്കണമെങ്കിൽ ഈ മൂന്ന് പോയിന്റുകളുടെ ഔട്ട്പുട്ട് മൂല്യം നിങ്ങൾക്ക് കണ്ടെത്തുകയും ശരാശരി എടുക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് വളരെ നിസ്സാരമായത് തുടർന്ന് അത് ഇതുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട് ആണെന്ന് പറയുക അതിനാൽ ഫംഗ്ഷൻ അപ്രോക്സിമേഷൻ പ്രശ്നങ്ങൾക്കും മറ്റും ഇത് പൊരുത്തപ്പെടുത്തുന്നു എന്നിരുന്നാലും ക്ലാസ്സിഫിക്കേഷന് ഇതാണ് അടിസ്ഥാന ആശയം ഇപ്പോൾ നിങ്ങൾ k 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് 5 അക്കങ്ങളിലേക്ക് ഇറങ്ങി ഭൂരിപക്ഷ വോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത്രമാത്രം അതിനാൽ ഈ വളരെ ലളിതമായ ആശയം ഇവിടെ നോക്കാം ഇത് പരിശീലന ഡാറ്റ തന്നെയാണെന്ന് നമുക്ക് പറയാം തുടർന്ന് എനിക്ക് k 3 നോക്കണം തുടർന്ന് പരിശീലന ഡാറ്റയുടെ തന്നെ ലേബലുകൾ എന്താണെന്ന് നോക്കണം യഥാർത്ഥത്തിൽ നീല ലേബൽ ചെയ്തിരിക്കുന്നു അതിനാൽ ഇത് മേൽനോട്ടം സൂപ്പർവൈസ്ഡ് ആണ് അതിനാൽ നീല എല്ലാം ക്ലാസ് 1 ലും ചുവപ്പ് എല്ലാം ക്ലാസ് 2 ലും ഉൾപ്പെടുന്നു തുടർന്ന് ഉദാഹരണത്തിന്ഇവിടെയുള്ള ഈ ബ്ലൂ പോയിന്റ് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം ലേബൽ നീലയാണെന്ന് എനിക്കറിയാമെങ്കിലും k നിയറെസ്റ് നെയിബറിന്റെ അൽഗോരിതം ഏത് ക്ലാസിൽ പെട്ടതാണെന്ന് പറയും എനിക്ക് k 3 എടുക്കണമെങ്കിൽ പറയുക തുടർന്ന് അടിസ്ഥാനപരമായി എനിക്ക് ഈ മൂന്ന് ഏറ്റവും അടുത്തുള്ള മൂന്ന് പോയിന്റുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതാണ് പ്രതിനിധീകരിക്കുന്നത് ഭൂരിഭാഗവും നീലയായതിനാൽ ഇതും നീലയായിരിക്കും അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ശരിയായി വർഗ്ഗീകരിക്കും ഇപ്പോൾ പരിശീലന സെറ്റിൽ പോലും നിങ്ങൾ ഈ ചുവന്ന പോയിന്റ് എടുത്താൽ ലേബൽ ചുവപ്പാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഏറ്റവും അടുത്തുള്ള മൂന്ന് പോയിന്റുകൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ മൂന്ന് ഡാറ്റാ പോയിന്റുകൾ ഉപയോഗിച്ച് ഞാൻ നിയറെസ്റ് നെയിബർ k പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അവയെല്ലാം നീലയുടേതാണ് അതിനാൽ പരിശീലന ഡാറ്റ സെറ്റിൽ പോലും ഇത് നീലയായി തെറ്റായി വർഗ്ഗീകരിക്കപ്പെടും അതിനാൽ ഒരു പൊതുതത്ത്വം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ രണ്ട് ഡാറ്റാ പോയിന്റുകളുടെയും മിശ്രിതമുള്ള ഈ പ്രദേശത്ത് മാത്രം ഡാറ്റാ പോയിന്റുകൾ തെറ്റായി ക്ലാസ്സിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്തോറും മിസ് ക്ലാസിഫിക്കേഷന്റെ സാധ്യത കുറയുന്നു അതിനാൽ വീണ്ടും ചില അർത്ഥത്തിൽ നിങ്ങൾ ഒരു സമാന്തരം കാണുന്നു ഞാൻ ഇവിടെ ഒരു രേഖ വരച്ചിട്ട് ഇതെല്ലാം റെഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നീല ക്ലാസ് ആണ് അപ്പോൾ ഈ രേഖയ്ക്ക് ചുറ്റുമുള്ള പോയിന്റുകളാണ് പ്രശ്നം ഉള്ളത് അവ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ കുറവാണ് എന്നിരുന്നാലും നമ്മൾ ഇവിടെ ഒരിക്കലും ഒരു അതിർത്തി രേഖയോ കർവോ നിർവചിച്ചിട്ടില്ലെന്ന് ശ്രദ്ധിക്കുക ഈ അതിർത്തി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഡാറ്റ പോയിന്റുകൾ തന്നെ നിങ്ങളോട് പറയുന്നു അതിനാൽ ആ അർത്ഥത്തിൽ ഇത് ലളിതമാണെങ്കിലും ഇത് സങ്കീർണ്ണമായ ഒന്നാണ് കാരണം നമുക്ക് ഒരിക്കലും ഒരു അതിർത്തി ഊഹിക്കേണ്ടതില്ല ഡാറ്റ പോയിന്റുകൾ തന്നെ ഒരു പരിധിയെ ഏതെങ്കിലും അർത്ഥത്തിൽ നിർവചിക്കുന്നു അതിനാൽ സങ്കീർണ്ണമായ നോൺ ലീനിയർ ബൌണ്ടറികൾക്കായി എനിക്ക് ഈ അൽഗോരിതം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും നമ്മൾ ഒരു പാരാമെട്രിക് സമീപനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഊഹിക്കേണ്ടതാണ് അതിനാൽ അതൊരു പ്രധാന ആശയമാണ് K 5 ന് സമാനമായ ഒരു ചിത്രം ഇതാ പരിശീലന സെറ്റിൽ നിന്ന് തന്നെ ഈ ഡാറ്റാ പോയിന്റ് പരിശോധിക്കുക എന്ന് പറയണമെങ്കിൽ ഞാൻ അതിന്റെ അഞ്ച് നെയിബറുകളെ നോക്കുന്നു ഏറ്റവും അടുത്തുള്ള 1 2 3 4 5 എന്നിവയെല്ലാം ചുവപ്പാണ് അതിനാൽ ഇതിനെ ചുവപ്പ് എന്ന് ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നു അതിനാൽ ഇതാണ് അടിസ്ഥാന ആശയം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റ പോയിന്റ് ലഭിക്കുന്നതുവരെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിനാൽ പരിശീലന സെറ്റിൽ തന്നെ അൽഗോരിതം എത്രത്തോളം നന്നായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും എന്നിരുന്നാലും നിങ്ങൾ എനിക്ക് ഇവിടെ പുതിയ ടെസ്റ്റ് ഡാറ്റ നൽകിയാൽ ഈ ഡാറ്റ പോയിന്റ് എന്താണ് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഇതിന് ലേബൽ ഇല്ല മറ്റ് ചുവപ്പും നീലയും ഡാറ്റാ പോയിന്റുകൾക്ക് ഇതിനകം തന്നെ മുൻ അറിവിൽ നിന്ന് ഒരു ലേബൽ ഉണ്ടെന്ന് ഓർക്കുക ഇതിന് ഒരു ലേബൽ ഇല്ല അതിനാൽ അതിനുള്ള ഒരു ലേബൽ കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ k 3 ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡാറ്റ പോയിന്റിനായി ഞാൻ ഏറ്റവും അടുത്തുള്ള മൂന്ന് നെയിബേഴ്സിനെ കണ്ടെത്തും അവർ ഈ മൂന്ന് ഡാറ്റാ പോയിന്റുകളായിരിക്കും അപ്പോൾ ഇവയിൽ രണ്ടെണ്ണം ചുവപ്പാണെന്ന് ഞാൻ ശ്രദ്ധിക്കും അതിനാൽ ഈ പോയിന്റിന് 2 എന്ന ലേബൽ ലഭിക്കും മറുവശത്ത് ടെസ്റ്റ് ഡാറ്റ പോയിന്റ് ഇവിടെയാണെങ്കിൽ നിങ്ങൾ K 5 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള 5 നെയിബേഴ്സിനെ നോക്കുക തുടർന്ന് ഈ പോയിന്റിൽ അവയിൽ രണ്ടെണ്ണം ക്ലാസ് 2 ഉം മൂന്നെണ്ണം ക്ലാസ് 1 ഉം ആണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഭൂരിപക്ഷ വോട്ടിങ്ങിൽ ഇത് ക്ലാസ് 1 ആയി ഇടും അതിനാൽ ഈ ഡാറ്റ പോയിന്റിനായി നിങ്ങൾക്ക് ക്ലാസ് 1 എന്ന ലേബൽ ലഭിക്കും അതിനാൽ k നിയറെസ്റ് നെയിബറിന്റെ അടിസ്ഥാന ആശയം ഇതാണ് ഇത് വളരെ വളരെ ലളിതമാണ് എന്നിരുന്നാലും kNN പ്രയോഗിക്കുന്നതിന് മുമ്പ് പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഇവയാണ് അതിനാൽ ഒരാൾ ഉപയോഗിക്കാൻ പോകുന്ന നെയിബറുകളുടെ എണ്ണവും k യുടെ മൂല്യവും തിരഞ്ഞെടുക്കേണ്ടതാണ് അത് 3 5 7 9 തുടങ്ങി എന്ത് ആണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്ററിനെ ആശ്രയിച്ചിരിക്കും ഫലങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഡാറ്റയിൽ ശബ്ദമുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കേണ്ടതാണ് CNN ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ X 1 X 2 എന്നീ രണ്ട് ഡാറ്റാ പോയിന്റുകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇതിൽ n ഘടകങ്ങൾ ഉണ്ടെന്നതാണ് ഡിസ്റ്റൻസ് മെട്രിക് ഈ ഘടകങ്ങളെയെല്ലാം ചിത്രത്തിലേക്ക് എടുക്കുന്നു അതിനാൽ നമ്മൾ ഡിസ്റ്റൻസ് താരതമ്യം ചെയ്യുന്നതിനാൽ ഈ ഡാറ്റ പോയിന്റിനും ഈ ഡാറ്റ പോയിന്റിനുമുള്ള എല്ലാ ആട്രിബ്യൂട്ടുകളും നമ്മൾ ഡിസ്റ്റൻസുകൾ താരതമ്യം ചെയ്യുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത് ഇതിലെ പ്രശ്നം എന്തെന്നാൽ ഉദാഹരണത്തിന് ഒരു വർഗ്ഗീകരണ വീക്ഷണകോണിൽ നിന്ന് ഒട്ടും പ്രാധാന്യമില്ലാത്ത ധാരാളം ആട്രിബ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ അവ ഒരു വർഗ്ഗീകരണ വീക്ഷണകോണിൽ നിന്ന് പ്രധാനമല്ലെങ്കിലും അവ ഡിസ്റ്റൻസ് അളവിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഈ സവിശേഷതകൾ യഥാർത്ഥത്തിൽ K നിയറെസ്റ് നെയിബറിന്റെ ഫലങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രസക്തമായ സവിശേഷതകൾ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ വിവേചന ശേഷി നൽകുന്ന ഫീച്ചറുകൾ മാത്രമാണ് ഡിസ്റ്റൻസ് മെട്രിക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നവയാണ് എന്നതാണ് എന്നാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അൽഗോരിതങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് പ്രത്യേകിച്ചും ഇത് ഡാറ്റാ സയൻസിലെ ആദ്യ കോഴ്സാണ് നിങ്ങൾ മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണിവ അതിനാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മൂല്യവത്താണ് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമാകുന്നത് എന്നറിയാൻ ചില മാനസിക പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയവയും ഇപ്പോൾ മറ്റൊരു വശം സ്കെയിലിംഗ് ആണ് ഉദാഹരണത്തിന് രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റയിൽ താപനിലയും കോണ്സെന്ട്രേഷനും പറയാം കൂടാതെ താപനില 100 ന്റെ മൂല്യങ്ങളിലാണ് ഉള്ളത് കോൺസൺട്രേഷനുകൾ 0 1 0 2 എന്നിങ്ങനെയുള്ള മൂല്യങ്ങളിലാണ് നിങ്ങൾ ഡിസ്റ്റൻസ് അളക്കുമ്പോൾ ഈ സംഖ്യകൾ ഇതിൽ ആധിപത്യം സ്ഥാപിക്കും അതിനാൽ ഈ ഡിസ്റ്റൻസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡാറ്റ ഏതെങ്കിലും ഫോർമാറ്റിൽ സ്കെയിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അല്ലാത്തപക്ഷം ഇത് ഒരു വർഗ്ഗീകരണ വീക്ഷണകോണിൽ നിന്ന് ഒരു പ്രധാന വേരിയബിൾ ആയിരിക്കുമെങ്കിലും ഇത് ഒരിക്കലും ദൃശ്യമാകില്ല കാരണം ഈ സംഖ്യകൾ വലുതാണ് മാത്രമല്ല അവ ചെറിയ സംഖ്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും അതിനാൽ ഫീച്ചർ തിരഞ്ഞെടുക്കലും സ്കെയിലിംഗും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അവസാനത്തെ കാര്യം ഡയമെൻഷനാലിറ്റിയുടെ ശാപമാണ് അതിനാൽ ഇത് പ്രയോഗിക്കാൻ വളരെ നല്ല അൽഗോരിതം ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം തുടക്കത്തിൽ തന്നെ കൂടുതൽ കണക്കുകൂട്ടലുകൾ നടത്തേണ്ടി വന്നില്ല എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് ഒരു ടെസ്റ്റ് ഡാറ്റാ പോയിന്റ് ലഭിക്കുകയും അടുത്ത 5 നെയിബറുകളെ കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡിസ്റ്റൻസുകളും ഞാൻ കണക്കാക്കിയില്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ ഒരു മാർഗവുമില്ല അതിനാൽ എന്റെ ഡാറ്റാബേസിലെ ഡാറ്റാ പോയിന്റുകളുടെ എണ്ണം വളരെ വലുതാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയേക്കാം എനിക്ക് 10000 ഡാറ്റാ പോയിന്റുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം എനിക്ക് K 5 ഉള്ള ഒരു അൽഗോരിതം k നിയറെസ്റ് നെയിബർ അൽഗോരിതം ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ശരിക്കും ഞാൻ തിരയുന്നത് ഈ ഡാറ്റാബേസിൽ നിന്ന് ഈ ഡാറ്റാ പോയിന്റിലേക്ക് ഏറ്റവും അടുത്തുള്ള 5 ഡാറ്റ പോയിന്റുകൾ കണ്ടെത്തുക എന്നതാണ് എന്നിരുന്നാലും ഞാൻ എല്ലാ 10000 ദൂരങ്ങളും കണക്കാക്കുകയും അവയെ അടുക്കുകയും തുടർന്ന് മികച്ച 5 എണ്ണം തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ മികച്ച 5 എണ്ണം നേടുന്നതിന് വളരെയധികം ജോലി ചെയ്യേണ്ടതുണ്ട് അതിനാൽ അത് ചെയ്യുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നാൽ ഒരാൾ ഡാറ്റാ പോയിന്റുകളുടെയും നിരവധി സവിശേഷതകളുടെയും എണ്ണം ഓർക്കേണ്ടതുണ്ട് കൂടാതെ ഈ അൽഗോരിതം എങ്ങനെ ശ്രദ്ധാപൂർവ്വം പ്രയോഗിക്കണമെന്നും ചിന്തിക്കണം അതിനാൽ k യുടെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് ഡാറ്റയെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഇത് ഒരു പൊതു നിയമമാണ് നിങ്ങൾ k യ്ക്ക് വലിയ മൂല്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ നെയിബറുകളെ എടുക്കുന്നത് വ്യക്തമായി കാണാം അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു അതിനാൽ വർഗ്ഗീകരണത്തിൽ ശബ്ദത്തിന്റെ സ്വാധീനം കുറയും എന്നിരുന്നാലും നിങ്ങൾ ധാരാളം നെയിബറുകളെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ ബൌണ്ടറികൾ കുറഞ്ഞതും കൂടുതൽ ഉപയോഗപ്രദവുമാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇതുപോലുള്ള രണ്ട് ക്ലാസുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഈ ഡാറ്റാ പോയിന്റിനായി നിങ്ങൾ ധാരാളം നെയിബറുകളെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്ലാസിൽ നിന്ന് നിരവധി നെയിബറുകളെ തിരഞ്ഞെടുക്കാം അങ്ങനെ അത് ബൌണ്ടറികൾ കുറച്ചുകൂടി വ്യക്തവും കൂടുതൽ di യും ആക്കും അഞ്ചാമത്തെ സ്ലൈഡിൽ ഫ്ലിപ്സൈഡിൽ നിങ്ങൾ k യുടെ ചെറിയ മൂല്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അൽഗോരിതത്തെ ശബ്ദവും ഔട്ട്ലൈയറുകളും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഒരു ചട്ടം പോലെ നിങ്ങളുടെ തീരുമാനത്തിന്റെ അതിരുകൾ ക്രിസ്പർ ആകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അപ്രസക്തമായ സവിശേഷതകൾ നീക്കം ചെയ്യേണ്ടത് പ്രധാനമാണ് കൂടാതെ സ്കെയിലിംഗും ഒരു പ്രധാന ആശയമാണ് അതിനാൽ നിങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് CNN നൊപ്പം മികച്ച ക്ലാസ്സിഫിക്കേഷൻ ലഭിക്കും അതിനാൽ ഇതോടെ k നിയറെസ്റ് നെയിബറുകളെക്കുറിച്ചുള്ള ഈ ലെക്ച്ചർ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ ലെക്ച്ചറിന് ശേഷം ഒരു കെയ്സ് സ്റ്റഡി ഉണ്ടായിരിക്കും അതിന് k നിയറെസ്റ് നെയിബറുകളെ ഉപയോഗിക്കും അത് ടീച്ചിംഗ് അസിസ്റ്റന്റുമാരിൽ ഒരാൾ പഠിപ്പിക്കും അതിനുശേഷം k എന്നതിന്റെ ക്ലസ്റ്ററിംഗിനെക്കുറിച്ച് ഞാൻ ഒരു ലെക്ച്ചർ പഠിപ്പിക്കും നന്ദി ഭാവിയിലെ ലെക്ച്ചറിൽ നിങ്ങളെ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു